മറ്റൊരു കഥയ്ക്കുള്ള സമയമാണ് ഇത്തവണ ഇത് 5 അന്ധരുടെയും ആനയുടെയും കഥയാണ് ഈ അന്ധന്മാർ ഇത് ഒരു പഴയ ഇന്ത്യൻ നാടോടിക്കഥയിൽ നിന്നുള്ളതാണ്5 അന്ധന്മാർ ആനയുടെ അടുത്തേക്ക് പോവുകയാണ് എന്റെ പുറകിൽ കാണുന്നതുപോലെയുള്ള ഒരു ആനയുടെ അടുത്തേക്ക് അവർ പോയി അവർ ആനയുടെ വിവിധ ഭാഗങ്ങളിൽ സ്പർശിക്കുകയും അത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു അവരിലൊരാൾ പോയി തുമ്പിക്കൈ തൊട്ട് പറഞ്ഞു വോ ഇത് തടിച്ച കട്ടിയുള്ള പാമ്പായി തോന്നുന്നു മറ്റേയാൾ കാലിൽ ചെന്ന് പറഞ്ഞു ഓ ഇത് ഒരു സ്തംഭം പോലെ തോന്നുന്നു മറ്റൊരാൾ ആനയുടെ പുറകിൽ പോയി വാലിൽ വലിച്ചു പറഞ്ഞു കൊള്ളാം ഇത് ഒരു കയർ പോലെ തോന്നുന്നു അവസാനത്തേത് ആനയുടെ മുകളിൽ ചെന്ന് അതിന്റെ ചെവിയിൽ സ്പർശിച്ച് പറഞ്ഞു കൊള്ളാം ഇത് ഒരു ഫാൻ ആയി തോന്നുന്നു അവരെല്ലാവരും പിന്നീട് ഒത്തുചേർന്ന് ഇത് ഒരു ഫാൻ അല്ല ഇത് ഒരു കയറാണ് ഇതൊരു സ്തംഭമാണ് ഇതൊരു പാമ്പാണ് പരസ്പരം കലഹിക്കാൻ തുടങ്ങി അപ്പോൾ ഒരു ജ്ഞാനിയുടെ അടുത്ത് ഇവരെ എല്ലാവരെയും കൊണ്ടു നിർത്തി പറഞ്ഞു നിങ്ങൾ ഈ ആനയുടെ വിവിധ ഭാഗങ്ങളിൽ സ്പർശിച്ചു എന്ന് എനിക്കറിയാം പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഒരു ആനയാണ് ഇത് ആന എന്ന വലിയ മൃഗമാണ് നിരവധി തവണ നമ്മൾ ചെറിയ ഭാഗങ്ങൾ ചെറിയ പരിഹാരങ്ങൾ ചെറിയ ആശയങ്ങൾ എന്നിവ നോക്കിക്കാണുന്നു ഇത് പരിഹരിക്കുമെന്ന് നമ്മൾ കരുതുന്നു അതേസമയം ഐക്യം ഒന്നിച്ച് ചേർത്താൽ അത് യഥാർത്ഥത്തിൽ ഗുണം ചെയ്യും അതിനാലാണ് ഈ ആശയങ്ങളെല്ലാം അടുക്കി അതിൽ നിന്ന് ഒരു ആശയം പുറത്തെടുക്കേണ്ടത് അതുകൊണ്ടാണ് ഈ സ്റ്റോറി